നമ്മൾ ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ കോൺസ്റ്റന്റ് V G S ൽ ബയസ് ചെയ്യുന്നതിനെക്കാൾ കോൺസ്റ്റന്റ് ഡ്രെയിൻ കറൻറിൽ ബയസ് ചെയ്യിക്കുന്നതാണ് നല്ലതെന്ന് മനസിലാക്കി അതായത് കപ്പാസിറ്ററിൽ ഒരേ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നിലനിർത്തുന്നതിന് പകരം ഒരേ കറൻറ് നിലനിർത്തിയാൽ കറൻറ് ഫാക്ടർ ത്രഷോൾഡ് വോൾട്ടേജ് തുടങ്ങിയ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിലുള്ള വ്യതിയാനങ്ങളിൽ ട്രാൻസ്കണ്ടക്ടൻസ് ആയ g m നുള്ള സെൻസിറ്റിവിറ്റി വളരേ ചെറുതായിരിക്കും ഇവിടെ ചില നോമിനൽ ത്രെഷോൾഡ് വോൾട്ടേജും നോമിനൽ കറൻറ് ഫാക്ടറുമുണ്ട് വൺ വോൾട്ട് എന്നും 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയർ എന്നും പറയാം എന്നാൽ ഈ അളവുകൾ ഒരു നിശ്ചിത ട്രാൻസിസ്റ്ററിന്റെ താപനിലയുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവ ട്രാൻസിസ്റ്ററിൽ നിന്നു ട്രാൻസിസ്റ്ററിലേക്ക് വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ വ്യത്യസ്ത ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോ പീസിലും വ്യത്യസ്ത ഗെയിൻ ഉണ്ടാകും മാത്രമല്ല വ്യത്യസ്ത താപനിലയിൽ വ്യത്യസ്ത ഗെയിൻ ഉണ്ടാകും ഈ സവിശേഷത കഴിയുന്നത്ര ടൈറ്റ്ലി കണ്ട്രോൾട് ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിനർത്ഥം നമ്മുടെ യഥാർത്ഥ ഉദ്ദേശ്യം ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ നിർമ്മിക്കുകയെന്നതായിരുന്നു ഇവിടെ നിങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ കോമൺ സോഴ്സ് ആംപ്ലിഫയറുകളും അടിസ്ഥാനപരമായി ഒരേ രൂപകൽപ്പനയുടെ പകർപ്പുകളായിരിക്കും കൂടാതെ എല്ലാത്തിനും 3 വോൾട്ട് V G S ഉണ്ടായിരിക്കണം ഇപ്പോൾ അതൊരു നല്ല ആശയമല്ലെന്ന് നമുക്കറിയാം നിങ്ങൾ ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്ന ഓരോ ആംപ്ലിഫയറിലും 200 മൈക്രോ ആമ്പിയറുകളുടെ കറന്റ് ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും ഉറപ്പാക്കുക എന്നതാണ് മികച്ച ആശയം ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും ഇത് പറയുന്നതുപോലെ എളുപ്പമല്ല കാരണം നമ്മൾ ഇപ്പോൾ കാണും ഇത് ശരിയാണ് പക്ഷേ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും ട്രാൻസിസ്റ്റർ യൂണിലാറ്ററൽ ഉപകരണമാണ് എന്നതാണ് കാര്യം ഇത് എല്ലാ കണ്ട്രോൾട് സോഴ്സ്കളിലും ശരിയാണ് ഇത് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൽ ഡ്രെയിൻ കറൻറ് ചെറുതായി ആശ്രയിക്കുന്നത് നമുക്ക് അവഗണിക്കാം അതിനാൽ ID ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനർത്ഥം നിങ്ങൾ കുറച്ച് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും V D S എന്നത് V G S V T എന്നതിനെക്കാൾ കൂടുതലാണെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ ഈ ഏകദേശ കണക്ക് ശരിയാണ് നിങ്ങൾ ചില V G S പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കറന്റ് ലഭിക്കും എന്നാൽ ഒരു നിശ്ചിത കറന്റ് കൊടുത്ത് V G S മാന്ത്രികമായി കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ എല്ലാ കണ്ട്രോൾ സോഴ്സും ഒരേ തരത്തിലുള്ളതാണ് അതിനാൽ നമുക്ക് ഒരു വോൾട്ടേജ് കണ്ട്രോൾട് വോൾട്ടേജ് സോഴ്സ് എടുക്കാം ഇതും ഒരു യൂണിലാറ്ററൽ ഉപകരണമാണ് അതിനർഥം ഇത് k തവണ V i ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ഇവിടെ ഒരു വൺ വോൾട്ട് പ്രയോഗിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് k വോൾട്ട് ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് ഈ വശത്ത് k വോൾട്ട് പ്രയോഗിക്കാൻ കഴിയില്ല ഈ സർക്യൂട്ടിന് ഒരു അർത്ഥമില്ല നിങ്ങൾക്ക് k വോൾട്ട് പ്രയോഗിക്കാനും മറുവശത്ത് ഒരു വൺ വോൾട്ട് പ്രതീക്ഷിക്കാനും കഴിയില്ല അതിനാൽ ഇതാണ് ഒരു യൂണിലാറ്ററൽ ഉപകരണത്തിന്റെ അർത്ഥം അതിനാൽ നിങ്ങൾക്ക് ടു പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ y12 പൂജ്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊരു യൂണിലാറ്ററൽ ഉപകരണമായി മാറുന്നു അതായത് നിങ്ങൾ പോർട്ട് ഒന്നിൽ എന്തെങ്കിലും പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് പോർട്ട് രണ്ടിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്നാൽ പോർട്ട് രണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോഗിക്കാൻ കഴിയില്ല പോർട്ട് ഒന്നിൽ മാത്രമേ പറ്റൂ അതിനാൽ ഇത് റെസിസ്റ്ററുകൾക്ക് വിപരീതമായി യൂണിലാറ്ററൽ ഉപകരണങ്ങളാണ് എന്ന് പറയാം ഇത് ഒരു പ്രധാന വ്യത്യാസമാണ് അതിനാൽ റെസിസ്റ്റർ V IR ന് തുല്യമാണ് എനിക്ക് ഇത് എല്ലായ്പോഴും I V R എന്നു എഴുതാൻ സാധിക്കും ഇപ്പോൾ ഇത് ഗണിതശാസ്ത്രപരമായ ബന്ധം മാത്രമാണ് പക്ഷേ ഇതും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു അതായത് നിങ്ങൾ ഒരു കറന്റ് പ്രയോഗിച്ചാൽ അതൊരു റെസിസ്റ്ററിലൂടെ കടത്തിവിടാൻ കഴിയും കൂടാതെ അവിടെ കണ്ടെത്തുന്ന വോൾട്ടേജ് I R നു തുല്യമായിരിക്കും അതിനുപകരമായി നിങ്ങൾക്ക് ഒരു വോൾട്ടേജും പ്രയോഗിക്കാം അപ്പോൾ അതിലൂടെയുള്ള കറൻറ് V R ന് തുല്യമായിരിക്കും ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്റർ അങ്ങനെയല്ല അതിനാൽ I D എന്നു പറയുന്നത് കറൻറ് ഫാക്ടർ K n V G S V T 2 ആണ് എനിക്ക് തീർച്ചയായും ഈ ഗണിതശാസ്ത്രപരമായ ബന്ധം തിരിച്ച് പറയാനാകും V G S എന്നു പറയുന്നത് V T √ 2 I D K n ആണ് ഇത് സാധ്യമാണ് എന്നാൽ ഞാൻ ഇത് ചെയ്യാം എനിക്ക് ഒരു V G S പ്രയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ I D ഒഴുകും ഇത് പ്രവർത്തിക്കും ഇത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് കുറച്ച് ബയസ് ആവശ്യമാണ് മറുവശത്ത് നിങ്ങൾക്ക് മറ്റ് വഴികളിലൂടെ ചെയ്യാനാകും നിങ്ങൾക്ക് ഇത് കണക്കാക്കാമെങ്കിലും നിങ്ങൾക്ക് V G S കറൻറിൽ നിന്നും അല്ലെങ്കിൽ കറൻറ് V G S ൽ നിന്നും കണക്കാക്കാം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് I D പ്രയോഗിക്കാൻ കഴിയില്ല കൂടാതെ ഈ V G S ഇവിടെ ദൃശ്യമാകുമെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തിക്കുകയേയില്ല വാസ്തവത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വളരെ ഉയർന്ന മൂല്യത്തിൽ എത്തും കൂടാതെ ഈ മോഡൽ സാധുവാകുന്നിടത്തു നിന്ന് ഈ ഉപകരണം അതിന്റെ പരിധിക്കപ്പുറത്തേക്ക് പോകും അങ്ങനെ മറ്റെന്തെങ്കിലും സംഭവിക്കും ഒന്നുകിൽ ഉപകരണം തകരാറിലാകാം അല്ലെങ്കിൽ ഉപകരണത്തിലെ മറ്റ് ചില ജംഗ്ഷനുകളിലേക്ക് കറന്റ് ഒഴുകും അതിനാൽ ഇത് ഒട്ടും പ്രവർത്തിക്കുന്നില്ല നിയന്ത്രണം ഒരു ദിശയിൽ മാത്രം ഉള്ള ഒരു കണ്ട്രോൾട് സോഴ്സ് പോലെ അതിനാൽ ഇത് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഗണിതശാസ്ത്ര ബന്ധം വിപരീതമാക്കാനാകുമെങ്കിലും നിങ്ങൾക്ക് വിപരീതദിശയിൽ സർക്യൂട്ട് ക്രമീകരിക്കാൻ കഴിയില്ല V G S കണ്ട്രോളിങ് ക്വാണ്ടിറ്റിയാണ് കൂടാതെ I D കണ്ട്രോൾട് ക്വാണ്ടിറ്റിയാണ് മറ്റ് രീതി പ്രവർത്തിക്കില്ല അതിനാൽ ട്രാൻസിസ്റ്റർ ഒരു നിശ്ചിത അളവ് കറന്റ് ഒഴുകുന്നതിനായി എങ്ങനെയാണ് നമ്മൾ സജ്ജീകരിക്കുന്നത് ഒരു വഴിയേയുള്ളൂ ഒരു MOS ട്രാൻസിസ്റ്ററിലെ കറന്റ് മാറ്റുന്ന ഒരു അളവ് മാത്രമേയുള്ളൂ അതാണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിപ്പറയുന്നവയാണ് നിങ്ങൾ ഇത് സ്വമേധയാ ചെയ്യുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കിവിടെ V G S V T യേക്കാൾ വലിയ V D S നല്കാം അതുണ്ടാക്കാൻ പ്രയാസമില്ല നിങ്ങൾ ഇവിടെ ഒരു വലിയ മൂല്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് സാച്ചുറേഷനിൽ തുടരും പിന്നെ എനിക്ക് ഈ VGS ലേക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ബന്ധിപ്പിക്കേണ്ടതുണ്ട്എനിക്കത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതിനാൽ ഞാൻ ഇത് വ്യത്യാസപ്പെടുത്തുന്നു ഞാൻ അമീറ്റർ റീഡിംഗ് നോക്കുമ്പോൾ അത് അമ്പത് മൈക്രോ ആമ്പിയറുകളാണെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് 200 മൈക്രോ ആമ്പിയർ ഉള്ള ഒരു കറന്റ് വേണമെന്ന് അറിയാനാകും അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാൽ അത് 50 മൈക്രോ ആമ്പിയറുകളാണെങ്കിൽ കറന്റ് വർദ്ധിപ്പിക്കുന്നതിനായി ഞാൻ V G S വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം അതിനാൽ ഞാൻ V G S നെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കും ചിലപ്പോൾ അത് 100 ആകാം അപ്പോൾ ഞാനത് വീണ്ടും വർദ്ധിപ്പിക്കും ഇത് 150 ആയി മാറുമ്പോൾ വീണ്ടും ഇത് 200 ൽ എത്തുന്നതുവരെ ഞാൻ അത് വർദ്ധിപ്പിക്കും തുടർന്ന് ഞാനത് അവിടെ നിർത്തുന്നു അങ്ങനെ അത് പ്രവർത്തിക്കും V G S ന്റെ വളരെ വലിയ മൂല്യം ഉപയോഗിച്ച് എനിക്കിത് ആരംഭിക്കാം പക്ഷേ എത്രയാണ് പ്രയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കൂടാതെ കറൻറ് ഇതിനകം 400 മൈക്രോ ആമ്പിയറുകളാണ് കറന്റ് എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് എനിക്കറിയാം അത് 200 മൈക്രോ ആമ്പിയറുകളാണ് അതിനാൽ ഈ കറന്റ് എനിക്ക് ആവശ്യമുള്ള കറൻറിനു തുല്യമാകുന്നതുവരെ ഞാൻ VG S കുറയ്ക്കേണ്ടതുണ്ട് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ യഥാർത്ഥ ഡ്രെയിൻ കറന്റ് നിരീക്ഷിക്കണം ഞാൻ അതിനെ ആവശ്യമുള്ള ഡ്രെയിൻ കറന്റുമായി താരതമ്യം ചെയ്യണം ഈ ഉദാഹരണത്തിൽ ഇത് 200 മൈക്രോ ആമ്പിയറുകളാണ് യഥാർത്ഥ ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള ഡ്രെയിൻ കറന്റിനേക്കാൾ കുറവോ അതിൽ കൂടുതലോ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി ആവശ്യാനുസരണം എനിക്ക് V G S കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡ്രെയിൻ കറന്റായ ഔട്ട്പുട്ടിനെ ഞാൻ നോക്കേണ്ടതുണ്ട് എന്നിട്ട് ഇൻപുട്ടിനെ നിയന്ത്രിക്കണം യഥാർത്ഥ ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യവും ആവശ്യമുള്ള മൂല്യവും തമ്മിലുള്ള വ്യത്യാസം ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്യണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മുഴുവൻ പ്രക്രിയയും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നറിയപ്പെടുന്നു ഇതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് അതിനാൽ ഒരു നിശ്ചിത ഡ്രെയിൻ കറന്റ് സജ്ജമാക്കുന്നതിനുള്ള മാർഗം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിലൂടെയാണ് കാരണം V G S മാറ്റുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഡ്രെയിൻ കറൻറ് നിയന്ത്രിക്കാൻ കഴിയൂ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലേക്ക് ഒരു കറന്റ് ഒഴുകുമെന്ന് പ്രതീക്ഷിച്ച് നേരിട്ട് കറന്റ് പ്രയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ശരിയായ പ്രവർത്തന മേഖലയിൽ ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കില്ല യഥാർത്ഥ ഡ്രെയിൻ കറന്റിനെ ആവശ്യമുള്ള ഡ്രെയിൻ കറന്റുമായി താരതമ്യപ്പെടുത്തുകയും ആവശ്യമുള്ളതും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യത്തിലേക്ക് പോകുന്ന തരത്തിൽ V G S തുടർച്ചയായി ക്രമീകരിക്കുകയുമാണ് ഇതിനുള്ള മാർഗം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന നിരവധി സ്കീമുകളുണ്ട് ബയസിങ് ക്രമീകരണങ്ങളുടെ എണ്ണം ശരിക്കും ധാരാളം ഉണ്ട് അതിൻറെ പിന്നിലുള്ള തത്ത്വങ്ങൾ മനസിലാക്കുക ഓരോ ടോപ്പോളജികളും മനഃപാഠമാക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അതിനാൽ ലളിതമായ ടോപ്പോളജി നിങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ തത്ത്വങ്ങൾ കൂടുതൽ പ്രധാനമാണ് അതിനാൽ ഈ ക്രമീകരണങ്ങളെല്ലാം വരാനിരിക്കുന്ന പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും